ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 26 ലാണ് അതിനാൽ ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾക്കായി നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നതിനായി ആദ്യം നമുക്ക് വസ്തു നോക്കാം വസ്തുവിന് ഒരു ബ്ലോക്ക് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ ഈ ബ്ലോക്ക് പൂർണമായും മുകളിലേക്ക് എത്തുന്നു ഇത് പൂർണ്ണമായും അവിടെയെത്തി ശേഷം ആ ദിശയിലൂടെ കടന്നുപോകുന്നു ഇത് അതുവരെ എത്തുന്നു കൂടാതെ ത്രികോണാകൃതിയിലുള്ള ഒരു ഭാഗം ഉണ്ട് അത് വർധിച്ചു വരുന്നു അതൊരു ഭിത്തി പോലെയാണ് പൂർണ്ണമായും മുകളിലേക്ക് വരെ എത്തുന്ന ചരിഞ്ഞ രീതിയിലുള്ള ഒരു ഭിത്തി അങ്ങനെ അത് ഈ വൃത്താംശം സ്പർശിക്കുന്ന രീതിയിലായി മാറുന്നു അവിടെ ഒരു സിലിണ്ടർ ഇവിടെ ശൂന്യമാണ് അതിനുള്ളിൽ വീണ്ടും ഒരു ദ്വാരം ഉണ്ട് അതിനാൽ ഡ്രില്ലിംഗ് ഓപ്പറേഷനിലൂടെ പോലെയാണ് അതുപോലെ വ്യത്യസ്ത അളവുകളിൽ നൽകിയിരിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ ഈ മധ്യബിന്ദു 35 മില്ലീമീറ്റർ മുകളിലാണെന്നും ഈ വലയാംശം നോക്കുമ്പോൾ ഇത് മുഴുവനായും ആരം 35 വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ അമ്പടയാള ദിശ ഉപയോഗിച്ച് ഫ്രന്റ് വ്യൂ ആയി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ആദ്യത്തെ ക്വാഡ്രന്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ നമ്മൾ അത്തരത്തിലുള്ള ഒന്ന് നിർമ്മിക്കാൻ പോകുന്നു നമുക്ക് ആദ്യം ഫ്രണ്ട് വ്യൂ ഉണ്ട് അതിനാൽ അവിടെ ഈ പ്രൊജക്ഷൻ ഉണ്ട് അതിനാൽ അതിനു മുൻപായി ഈ നില വരെ എത്തുന്ന എന്തോ ഒന്ന് അവിടെ ഉണ്ട് അതിനാൽ ഈ നില വരെ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും അവിടെ ഒരു വൃത്തവും അതിനു മുകളിൽ ആ വളഞ്ഞ കമാനം പോലെയുള്ള ഒന്നും ഉണ്ട് ഈ രേഖ അന്യോന്യം അത് പോലെ സമാന്തരമായി പോകേണ്ടതാണ് അത് നിർമ്മിക്കാൻ നമുക്കാകും കൂടാതെ കമാനം പോലെയുള്ള ഒന്ന് ലംബമായിട്ടുള്ള രേഖയിൽ നമുക്ക് കാണാവുന്നതാണ് അതിനാൽ നമ്മൾ അതിലേക്കു നോക്കുകയാണെങ്കിൽ ഇത് അവിടെയെത്തുന്നു കൂടാതെ നമുക്ക് അവിടെ ചെരിഞ്ഞ രേഖ കാണാനാകും ഇത്രയെങ്കിലുമായിരിക്കും ആദ്യമായിട്ടുള്ള ഫ്രന്റ് വ്യൂവിൽ രേഖകളും മറഞ്ഞിരിക്കുന്ന രേഖകളും ഉണ്ടായിരിക്കാം അതാണ് അടുത്തതായി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിനാൽ അത് ചെയ്യുന്നതിന് ഒന്നാമതായി നമുക്ക് പടിപടിയായി നോക്കാം ചെരിഞ്ഞ വ്യൂവിന് ചെയ്യണം എന്നതാണ് അതിനാൽ നിങ്ങളുടെ വസ്തു ആ ദിശയിലായിരിക്കണം ആദ്യം നമ്മൾ അതിനെ വിന്യസിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ വ്യൂവിന് വരക്കുക എന്നതാണ് ആ ആവശ്യത്തിനായി ഇത് ഫസ്റ്റ് ക്വാഡ്രാന്റിലെ ചെയ്യപ്പെടുന്ന അതാര്യമായ തലം അതുപോലെ പ്രകാശം പതിക്കുമ്പോൾ ആദ്യത്തെ ക്വാഡ്രന്റിൽ

അടുത്ത അത്യാവശ്യമായ കാര്യം റഫറൻസ് പ്ലെയിൻസിൽ നിർമ്മിച്ചതിന് ശേഷം വരയ്ക്കുമ്പോൾ ഈ പ്രശ്നം നമുക്ക് കാണാനാകും ഏത് ചിത്രവും വരക്കാനാകുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ റഫറൻസ് പ്ലെയിനിനു കൂടി നിർമ്മിക്കുക അതിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഡ്രോയിംഗ് നിർമ്മിക്കാൻ കഴിയൂ നമുക്കത് പിന്നീട് നോക്കാം ആ നിരീക്ഷണങ്ങൾ ഉപയോഗിച്ച് ഈ ഡ്രോയിംഗിനായുള്ള ആ പ്ലെയിനിൽ ഇത് തിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭാഗം ദൃശ്യവൽക്കരിക്കാവുന്ന ഒരു സ്ഥാനത്ത് ആയിരിക്കും ഞാൻ ഉണ്ടാവുക ഈ ഭാഗവും ദൃശ്യവൽക്കരിക്കാവുന്ന ഒരു സ്ഥാനത്ത് ആയിരിക്കും ഞാൻ ഉണ്ടാവുക ആ ഭാഗവും ദൃശ്യവൽക്കരിക്കാവുന്ന ഒരു സ്ഥാനത്ത് ആയിരിക്കും ഞാൻ ഉണ്ടാവുക ആ ഭാഗവും ദൃശ്യവൽക്കരിക്കാവുന്ന ഒരു സ്ഥാനത്ത് ആയിരിക്കും ഞാൻ ഉണ്ടാവുക മറ്റ് ചില ഭാഗങ്ങൾ എനിക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ഈ ഉപരിതലം ആ പ്ലെയിനിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ ഉപരിതലങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല ഉദാഹരണത്തിന് ഫ്രണ്ട് വ്യൂ നമുക്ക് ദൃശ്യമാകുന്നതിനെ നമുക്ക് ഈ വർണം ഉപയോഗിച്ച് കാണിക്കാം അതായതു ഇതും ഇതും ഇനി നമുക്ക് ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ കാണാനാകുന്നത് ആ ഭാഗമാണ് വീണ്ടും നമുക്ക് ഈ ഭാഗങ്ങൾ കാണാനാകും അവശേഷിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ദൃശ്യവൽക്കരിക്കാനാവില്ല ഉദാഹരണത്തിന് നമുക്ക് ഇത് ദൃശ്യവൽക്കരിക്കാനാവില്ല അതുപോലെ തന്നെ നമുക്ക് അതും ദൃശ്യവൽക്കരിക്കാൻ കഴിയില്ല സൈഡ് വ്യൂ ദിശകളിലും കാണാനാകുന്ന ചില ഉപരിതലങ്ങൾ അവിടെ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ ഈ നിറം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ പച്ചനിറം നമുക്ക് പച്ച നിറം തിരഞ്ഞെടുക്കാം ഈ ദിശയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് ദൃശ്യമാണ് കൂടാതെ ടോപ് വ്യൂവിലും നിന്നും ഒരുപോലെ ദൃശ്യമാകുന്ന ഉപരിതലങ്ങൾ നമ്മൾ കാണിച്ചിരിക്കുന്നു ഫ്രന്റ് വ്യൂവിലും ഈ ദിശയിലാണ് അതിനാൽ ഇത് ദൃശ്യമാണ് ടോപ് വ്യൂ ഈ ദിശയിലാണ് അതിനാൽ ഈ ഭാഗവും ദൃശ്യമാണ് ഏത് വ്യൂവിലും പ്രൊജക്ഷൻ ഉപയോഗിച്ച് ഈ വസ്തു പൂർണമായും നിർമ്മിക്കാം നമ്മുടെ ഉദാഹരണം നമുക്ക് ഓർമിക്കാം ആദ്യ ഉദാഹരണത്തിൽ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലഭിക്കും ഒരുപക്ഷെ നമുക്ക് ഒരു വ്യൂ ഉണ്ടായിരിക്കും അതിനാൽ അത് താഴത്തെ നിലയിൽ വരുന്നു അതിനാൽ നമുക്ക് അത് ഓർമിക്കാം അത് ഉപയോഗിച്ച് നമുക്ക് വസ്തു നിർമ്മിക്കാം അതിനാൽ വസ്തു ഇവിടെ കാണിച്ചിരിക്കുന്നു ഇതാണ് ദിശ നമ്മൾ പിന്തുടരേണ്ട ഘട്ടങ്ങൾ എന്തെന്നാൽ 1 2 3 4 ആദ്യം നമുക്ക് ഒരു ഫ്രന്റ് വ്യൂ ആരംഭിക്കാം അതിനാൽ ഡ്രോയിംഗ് ഷീറ്റ് ഉപയോഗിച്ച് നമ്മളുടെ മാനദണ്ഡം പോകണം അതിനാൽ നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടർ മാർക്ക് നിന്ന് ഒരു ദീർഘചതുരം നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മുടെ റൂളർ സ്കെയിൽ ആയിരിക്കണം അതിനാൽ ഇവിടെ നിന്ന് 70 യൂണിറ്റിൽ

അതിനാൽ നമ്മൾ 35 മില്ലീമീറ്റർ കണ്ടെത്തണം അതിനാൽ ഇവിടെ 10 20 30 35 മില്ലീമീറ്റർ നമ്മുടെ വൃത്തം കടന്നു പോയേക്കാവുന്നിടത്ത് നമുക്ക് ഒരു ലംബരേഖ വരക്കേണ്ടതുണ്ട് നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രം 35 എംഎം ആയിരിക്കാം അതിനാൽ നമുക്ക് ഈ നിലയിൽ നിർമ്മിക്കാം 35 മില്ലീമീറ്റർ തിരഞ്ഞെടുക്കുക അതിനാൽ ഇത് കടലാസിൽ നിന്ന് പുറത്താണ് അതിനാൽ നമുക്ക് അത് താഴെ ചെയ്യാം അതിനാൽ ഇവിടെ നമ്മൾ അവശേഷിക്കുന്ന ഭാഗം നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാം അത് ചെയ്തുകഴിഞ്ഞാൽ ഒരു വൃത്തം കൂടി നിർമ്മിക്കാൻ നമുക്ക് ആ ദിശയിലേക്ക് പോകണം അത് 50 മില്ലീമീറ്റർ വ്യാസമുള്ളതാണ് അതിനാൽ ഈ വ്യാസം 50 മില്ലീമീറ്ററാണ് എന്ന് നമുക്ക് മുൻപേതന്നെ അറിയാം അത് ഇതിൽ നിന്ന് നമുക്ക് ഇത് ലഭിക്കും അതിനാൽ 25 മില്ലീമീറ്റർ ആരംഭിക്കാം 10 20 30 40 ഇതാണ് സ്ഥാനം ഇത് മുഴുവനായും മുകളിലേക്ക് വരെ പോകേണ്ടതാണ് അതിനാൽ അത് യോജിപ്പിക്കുക സമാനമായി അതും യോജിപ്പിക്കുക 70 മില്ലീമീറ്ററിൽ നമ്മൾ സ്ഥാനനിർണ്ണയം നടത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഈ ചിത്രം നോക്കാം അവിടെ നിശ്ചിത ദൂരത്തിൽ ഉള്ള ഒരു ബിന്ദു ഉണ്ട് ഇവിടെ നിന്ന് അവിടെ വരെ 70 മില്ലീമീറ്റർ ഉണ്ട് അതിനാൽ ആദ്യം ഒരു ബിന്ദു കണ്ടെത്തുക തുടർന്ന് ഈ ബിന്ദുവിൽ നിന്ന് ആ ബിന്ദുവിലേക്കു ഒരു സ്പർശരേഖ നിർമ്മിക്കണം അതിനാൽ ബാഹ്യ ബിന്ദുവിൽ നിന്ന് ഒരു സ്പർശരേഖ എങ്ങനെ നിർമ്മിക്കാമെന്ന് ഓർമ്മിക്കുക അതിനാൽ ഇവിടെ നിന്ന് ആദ്യം ഈ 70 മില്ലീമീറ്റർ ഉള്ള ബിന്ദു കണ്ടെത്തുക ഇതാണ് ആ ബിന്ദു കാരണം ഈ രേഖ വരയ്ക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ മധ്യബിന്ദുവും അതിലൂടെ കടന്നുപോകുന്ന ബിന്ദുവും നിർമ്മിക്കുന്നതിനായി ആദ്യം ഈ ബിന്ദുവിലേക്കു രണ്ട് തുല്യ ഭാഗങ്ങളായി മുറിക്കുന്ന ലംബരേഖ നിർമ്മിക്കേണ്ടതുണ്ട് ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുക അതിനാൽ ഇതാണ് രണ്ട് തുല്യ ഭാഗങ്ങളായി മുറിക്കുന്ന ലംബരേഖ കൂടാതെ ഈ വൃത്തത്തിൽ നിന്നും സ്പർശരേഖ വരക്കുന്നതെങ്ങനെയെന്ന് ഓർത്തെടുക്കുക അതിനാൽ അത് ഈ ബിന്ദുവായിരിക്കണം അതിനാൽ ഇതാണ് നമ്മൾ ഒരു സ്പർശരേഖ നിർമ്മിക്കുന്ന രീതി കൂടാതെ ഇതാണ് ഫ്രന്റ് വ്യൂ ഇപ്പോൾ ഉടനടി നമ്മൾ ഈ രേഖകൾ പ്രൊജക്റ്റ് എന്ന് പേരിടുക